അതിനാൽ ഞങ്ങൾ FEM പ്രയോഗിച്ച 1D വേവ് സമവാക്യത്തെക്കുറിച്ചുള്ള ചർച്ച തുടരുന്നു ഇതുവരെ ഞങ്ങൾ FEM ലേക്ക് വന്നിട്ടില്ല ഞങ്ങൾ തരംഗ സമവാക്യം ചർച്ച ചെയ്യുകയും ശരിയായ അതിർത്തി വ്യവസ്ഥ നിങ്ങൾക്ക് കാണിച്ചുതരികയും ചെയ്തു കൂടാതെ ഇത് ഒരു പുതിയ തരം അതിർത്തി അവസ്ഥയാണെന്ന് ഞങ്ങൾ പറയുന്നു ഡിറിച്ലെറ്റ് അല്ല ന്യൂമാൻ എന്നാൽ ഇവ രണ്ടും കൂടിച്ചേർന്നതാണ് ഇതിനെ റോബിൻ അതിർത്തി അവസ്ഥ അല്ലെങ്കിൽ സോമർഫീൽഡ് റേഡിയേഷൻ അവസ്ഥ എന്ന് വിളിക്കുന്നു അതിനാൽ മിക്കവാറും എല്ലാ വൈദ്യുതകാന്തിക ചിതറിക്കിടക്കുന്ന പ്രശ്നങ്ങളിലും ഈ അതിർത്തി അവസ്ഥ വളരെ പ്രധാനമാണ് 1Dയിൽ ഇത് വളരെ ലളിതമായി തോന്നുന്നു ഫീൽഡിന്റെ ഡെറിവേറ്റീവ് സ്പേഷ്യൽ ഡെറിവേറ്റീവ് അത് പറയുന്ന ഫീൽഡിന് ആനുപാതികമാണ് 2D അല്ലെങ്കിൽ 3D യിൽ എന്ത് സംഭവിക്കും ഈ ഡെറിവേറ്റീവിനെ ചുരുളൻ ഉപയോഗിച്ച് മാറ്റിസ്ഥാപിക്കും ഡെൽ അവിടെത്തന്നെ ദൃശ്യമാകുമെന്നാണ് ഞാൻ അർത്ഥമാക്കുന്നത് അതിനാൽ നാം അത് മനസ്സിൽ സൂക്ഷിക്കണം അതിനാൽ മനസ്സിലാക്കരുത് നിങ്ങൾ ഒരു പദപ്രയോഗം ഒന്നിലധികം മാനങ്ങളിൽ കാണുമ്പോൾ നിങ്ങൾ അമിതമാകരുത് എന്നാണ് ഞാൻ അർത്ഥമാക്കുന്നത് നിങ്ങൾ അതിനെ താഴ്ന്ന അളവുകളിൽ നോക്കുമ്പോൾ അടിസ്ഥാനപരമായി ഇതാണ് ഫീൽഡിന്റെ ഗ്രേഡിയന്റ് എന്നത് ഫീൽഡിന് ആനുപാതികമാണ് എന്തുകൊണ്ടാണ് ഇത് വളരെ പ്രധാനമായത് കാരണം ഇത് എന്താണ് പറയുന്നത് ശൂന്യമായ സ്ഥലത്ത് ഒരു തരംഗത്തെ അനുസരിക്കുന്ന അവസ്ഥയാണ് ശൂന്യമായ സ്ഥലത്തെ ഏതെങ്കിലും പോയിന്റുകൾ സമ്മതിക്കുന്നത് അങ്ങനെയായിരിക്കുമ്പോൾ ഒരു പൊതു ഉദാഹരണം എടുക്കുക എനിക്ക് ഒരു ആന്റിന ഉണ്ടെന്ന് പറയാം അത് നിങ്ങളുടെ വൈഫൈ ആന്റിനയാണ് നിങ്ങൾക്ക് ഇവിടെ കുറച്ച് മനുഷ്യരുണ്ട് നിങ്ങൾക്ക് അവന്റെ കൈയിൽ ഒരു മൊബൈൽ ഫോൺ പോലും ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ അവളുടെ കൈ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം പഠിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ആരോഗ്യപ്രശ്നങ്ങൾക്ക് മൊബൈൽ ഫോൺ റേഡിയേഷൻ ഒരു കാരണമാണെന്ന് നിങ്ങൾക്കറിയാം എന്ന് ഞങ്ങൾക്കെല്ലാം അറിയാം അതിനാൽ ടിഷ്യുവിലേക്ക് പ്രവേശിക്കുന്ന ഫീൽഡ് എത്രയാണ് പരമാവധി പവർ ലെവൽ എത്രയാണ് അവയെല്ലാം അനുകരിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു അതിനാൽ നിങ്ങൾ ഈ പ്രശ്നം പരിഹരിക്കാൻ പോകുമ്പോൾ ഒരു സിമുലേഷനിൽ ഈ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുക നിങ്ങൾ സിമുലേഷൻ അതിർത്തി എവിടെയെങ്കിലും അവസാനിപ്പിക്കണം അതിനാൽ ഉദാഹരണത്തിന് ഇത് എന്റെ സിമുലേഷൻ ബൌണ്ടറി ശരിയാണെന്ന് പറയാം അതിനാൽ ഈ പ്രശ്നത്തിൽ നിങ്ങൾ രണ്ട് കാര്യങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നു സുരക്ഷിതമായിരിക്കാൻ നിങ്ങൾ ബേസ് സ്റ്റേഷനോട് എത്ര അടുത്തായിരിക്കണം എന്നതാണ് ഒന്ന് ബേസ് സ്റ്റേഷനുകൾ ടവറുകൾ ധാരാളം വൈദ്യുതി പുറപ്പെടുവിക്കുന്നുവെന്ന് നിങ്ങൾക്കറിയാം അതിനാൽ നിങ്ങൾ അവരുടെ മുന്നിൽ കൂടുതൽ സമയം ചെലവഴിക്കുകയാണെങ്കിൽ അനുഭവപരമായി നിരീക്ഷിക്കപ്പെടുന്ന ആരോഗ്യപരമായ അപകടമുണ്ട് മറുവശത്ത് ആരോ മൊബൈൽ കൈയ്യിൽ പിടിച്ച് കുറേനേരം സംസാരിക്കുന്നു മൊബൈൽ കുറച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു എന്നാൽ നിങ്ങൾ അത് ദീർഘനേരം സൂക്ഷിക്കുകയാണെങ്കിൽ അതും ക്യാൻസറിനുള്ള ഒരു കാരണമാണ് ഇപ്പോൾ ഈ സിമുലേഷൻ എവിടെയാണ് പരിഹരിക്കേണ്ടത് നിങ്ങൾ എവിടെയെങ്കിലും അതിർത്തി അവസാനിപ്പിക്കേണ്ടതുണ്ട് അല്ലാത്തപക്ഷം നിങ്ങൾക്ക് അനന്തമായ ഇടം അനുകരിക്കാൻ കഴിയുമെന്നാണ് ഞാൻ അർത്ഥമാക്കുന്നത് അതിനാൽ അത് ഇവിടെ അവസാനിപ്പിക്കാൻ നിങ്ങൾ തീരുമാനിച്ചുവെന്ന് നമുക്ക് പറയാം ഇപ്പോൾ നിങ്ങൾ ഇട്ടിരിക്കുന്ന അതിർ ഇതാ ഇതൊരു യഥാർത്ഥ അതിർത്തിയാണോ അതോ സാങ്കൽപ്പിക അതിർത്തിയാണോ യഥാർത്ഥ പ്രശ്നത്തിൽ ഇത് ഒരു സാങ്കൽപ്പിക അതിർത്തിയാണ് അത് അവിടെ ഇല്ല പക്ഷേ എനിക്ക് അത് അവിടെ സ്ഥാപിക്കേണ്ടിവന്നു അതിനാൽ ഏത് മേഖലയായാലും ഈ ഡൊമെയ്നിൽ നിന്ന് ഉത്ഭവിക്കുന്നതായി നമുക്ക് പറയാം അത് ഈ അതിർത്തിയെ അഭിമുഖീകരിക്കുമ്പോൾ യഥാർത്ഥ ജീവിതത്തിൽ എന്താണ് സംഭവിക്കേണ്ടത് വിദ്യാർത്ഥി അത് തുടരും ഇത് തുടർന്നുകൊണ്ടേയിരിക്കും കാരണം ഈ തരംഗം തുടരും കാരണം ഈ അതിർത്തി യഥാർത്ഥത്തിൽ നിലവിലില്ല പക്ഷേ ഗണിതശാസ്ത്രപരമായി ഞാൻ എന്റെ അതിർത്തി ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ എന്ത് സംഭവിക്കും അത് 0 ലേക്ക് പോകണം അല്ലെങ്കിൽ 0 ലേക്ക് പോയാൽ ഒരു പ്രശ്നമുണ്ട് കാരണം ഒരു ഫീൽഡിന് ഒരു ഫിസിക്കൽ ഫീൽഡിന് പെട്ടെന്ന് 0 ലേക്ക് പോകാൻ കഴിയില്ല വിദ്യാർത്ഥി ക്രമാതീതമായി ജീർണിക്കുന്നു ക്രമാതീതമായി ക്ഷയിക്കുന്നു അതിർത്തിക്ക് മുമ്പായി ഫീൽഡ് ഗണ്യമായി നശിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ വിദ്യാർത്ഥി അതിർത്തിയിൽ അതിർത്തിയിൽ നിങ്ങൾക്ക് ഒരു ഫീൽഡ് വേണമെങ്കിൽ 0 ശരി അതിനാൽ ഇത് ഒരു ഉദാഹരണം ഞാൻ നിങ്ങൾക്ക് നൽകാം വിദ്യാർത്ഥി സർ അതിർത്തിക്ക് മുമ്പ് അത് ചെയ്യണം അതിർത്തിക്ക് മുമ്പായി അത് 0 ലേക്ക് പോകണം വിദ്യാർത്ഥി അത് ആളുകളിൽ എത്തുമ്പോൾ അതിനാൽ ഇവിടെയുള്ള അതിർത്തിയുടെ ഈ ഭാഗം ഈ പച്ച ഭാഗം കൊണ്ടാണ് നിർമ്മിച്ചതെന്ന് നമുക്ക് പറയാനുള്ള പ്രശ്നം നോക്കാം ഞാൻ അത് തികഞ്ഞ ലോഹത്തിൽ നിന്നാണ് നിർമ്മിച്ചതെന്ന് കരുതുക ഒരു ഫീൽഡ് അവിടെ എത്തുമ്പോൾ അതിന് എന്ത് സംഭവിക്കും നിങ്ങൾ ആഗ്രഹിച്ചത് വലത്തേക്ക് 0 ലേക്ക് പോകുമ്പോൾ അത് അവിടെ ബൌൺസ് ചെയ്യും അപ്പോൾ അത് അഭിലഷണീയമോ അനഭിലഷണീയമോ അതിർത്തിയിൽ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ ഫീൽഡ് 0 ലേക്ക് പോയി പക്ഷേ അത് അഭികാമ്യമാണോ അനഭിലഷണീയമാണോ വിദ്യാർത്ഥി അതിനാൽ അത് അഭികാമ്യമായിരിക്കും അതിനാൽ അത് അനഭിലഷണീയമാണ് കാരണം നിങ്ങൾ ചെയ്യുന്നത് ഒരു ലോഹം ഇടുന്നതിലൂടെ അതിർത്തിയിലെ ഫീൽഡ് 0 ലേക്ക് പോകുന്നുണ്ടെങ്കിലും തുല്യവും വിപരീതവുമായ ഫീൽഡ് സൃഷ്ടിക്കുന്നതിലൂടെയാണ് അപ്പോൾ ഭൌതിക പ്രശ്നത്തിൽ ഇല്ലാതിരുന്ന ഒരു ലോഹം ഇവിടെ സ്ഥാപിക്കുന്നതിലൂടെ അവിടെ നിന്നുള്ള പ്രതിഫലനമായി മാറുന്ന ഗണിതമാണ് സംഭവിക്കുക അതിനാൽ അതിർത്തിയിൽ ഫീൽഡ് 0 ആയി ക്രമീകരിക്കുന്നത് ശരിയായ അതിർത്തി വ്യവസ്ഥയല്ല ശരിയായ അതിർത്തി വ്യവസ്ഥ എന്താണ് അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഒന്നും തിരികെ പ്രതിഫലിക്കേണ്ടതില്ല അത് എന്നിലേക്ക് തിരികെ വരാത്തിടത്തോളം വലുത് എന്തായാലും ഞാൻ സന്തോഷവാനാണ് വിദ്യാർത്ഥി അതെ അപ്പോൾ ഞാൻ സന്തോഷവാനാണ് അപ്പോൾ ഞാൻ യഥാർത്ഥ ലോക പ്രശ്നം കഴിയുന്നിടത്തോളം പുനർനിർമ്മിക്കുന്നു അതിനാൽ എനിക്ക് വേണ്ടത് ഈ ഫീൽഡ് ഇവിടെ വന്ന് പോകണം എന്നതാണ് നേരെ തിരിച്ചു പോകുന്ന ഒന്നും ഉണ്ടാകരുത് അതിനാൽ ഇവിടെ ഈ അതിർത്തിയിൽ ഞാൻ ഈ നിബന്ധന ചുമത്തിയാൽ അത് ഏതെങ്കിലും അർത്ഥത്തിൽ പുനർനിർമ്മിക്കുന്നത് എന്താണ് തടസ്സങ്ങളില്ലാതെ തടസ്സങ്ങളില്ലാതെ യാത്ര ചെയ്യുന്ന ഒരു വഴി അനുസരിക്കുന്ന അവസ്ഥയാണിത് കൂടാതെ ആ ഇന്റർഫേസിൽ എനിക്ക് ഈ വ്യവസ്ഥ അടിച്ചേൽപ്പിക്കാൻ കഴിയുമെങ്കിൽ ഫീൽഡ് അതേ സാഹചര്യം പുനഃസൃഷ്ടിക്കാൻ ശ്രമിക്കും കാരണം ഇത് നോക്കുന്നു അതെ ഫീൽഡ് തുടരുമെന്ന് കരുതുന്നു കാരണം അത് ഒരു വിമാന തരംഗത്തിന്റെ സമവാക്യമാണ് അതിരുകളില്ലാത്ത വലത്തേക്ക് സഞ്ചരിക്കുന്നു അതിനാൽ അതുകൊണ്ടാണ് ചിതറിക്കിടക്കുന്ന ആളുകളിൽ നിന്ന് റേഡിയേഷൻ അതിർത്തി അവസ്ഥ എന്ന പേര് വന്നത് കാരണം അവർക്ക് ഇത് ഒരു റേഡിയേഷൻ അതിർത്തി അവസ്ഥയാണ് അതായത് അനന്തതയിലേക്ക് പോകുന്ന ഒരു വികിരണത്തെ അനുകരിക്കുന്നു സർക്യൂട്ടിലെ ആളുകൾ ഇതിനെ വ്യത്യസ്ത കാരണങ്ങളാൽ ഇംപെഡൻസ് ബോർഡറി അവസ്ഥ എന്ന് വിളിക്കുന്നു പക്ഷേ ഭൌതിക വ്യാഖ്യാനം ഇതാണ് ഒരു സാങ്കൽപ്പിക നോൺ അസ്തിത്വ പ്രതലത്തിൽ നിന്ന് തിരിച്ചുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അതിനാൽ ഞങ്ങൾ ഒരു പ്രശ്നം പരിഹരിക്കുന്ന എത്ര അളവുകൾ വേണമെങ്കിലും 1D 2D 3D ലേക്ക് കൊണ്ടുപോകുന്നത് ഇതാണ് അതിനാൽ ഈ അതിർത്തി വ്യവസ്ഥ അതിർത്തി സ്ഥാനത്തെ ആശ്രയിച്ചിരിക്കുന്നു എന്നതാണോ നിങ്ങളുടെ ചോദ്യം വിദ്യാർത്ഥി അപ്പോൾ അത് അതിന്റെ അതിർത്തിയാണ് അതിനാൽ അത് അതിർത്തിയുടെ അവസ്ഥ നോക്കുന്നുണ്ടോ അത് അതിർത്തിയുടെ സ്ഥാനത്തെ ആശ്രയിച്ചിരിക്കുന്നുണ്ടോ കാരണം വിദ്യാർത്ഥി യു ഓഫ് x കാരണം അത് ആശ്രയിച്ചിരിക്കുന്നു അതിനാൽ ഞാൻ എന്തുതന്നെയായാലും ഞാൻ ഇത് ശരിയാക്കുന്നു അതിനാൽ ഡിറിച്ലെറ്റ് ന്യൂമാൻ അതിർത്തി വ്യവസ്ഥകൾ പോലെ ഞാൻ സജ്ജീകരിക്കുന്നത് സ്വതന്ത്രമല്ല അല്ലെങ്കിൽ അത് ഞാൻ എവിടെയാണെന്നതിനെ ആശ്രയിക്കുന്നില്ല എന്നാൽ മറുവശത്ത് ഈ അതിർത്തി വ്യവസ്ഥ അത് ഞാൻ എവിടെയാണെന്ന് പൊരുത്തപ്പെടുന്നു കാരണം രണ്ടും ഒരുമിച്ച് 0 ആയി സജ്ജീകരിച്ചിരിക്കുന്നു അതിനാൽ നിങ്ങൾക്ക് ഇത് 1 മീറ്ററിൽ അടിച്ചേൽപ്പിക്കാം ഒബ്ജക്റ്റിൽ നിന്ന് 3 മീറ്റർ അകലെ നിങ്ങൾക്ക് ഇത് ചുമത്താം 3 മീറ്ററിൽ അടിച്ചേൽപ്പിക്കുന്നതിന്റെ ദോഷം എന്താണ് വിദ്യാർത്ഥി അധിക ശരിയായ ആവശ്യമില്ലാത്ത അധിക കണക്കുകൂട്ടൽ അതിനാൽ ഇത് നിങ്ങളുടെ അതിർത്തിയാണെന്ന് സങ്കൽപ്പിക്കുക ഓ എനിക്ക് ഈ അതിർത്തിയിൽ പ്രശ്നമൊന്നുമില്ലെന്ന് ഉറപ്പാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു നല്ല കാരണമില്ലാതെ നിങ്ങൾ ഈ അധിക സ്ഥലമെല്ലാം അനുകരിക്കുകയാണ് എക്സ്ട്രാ സ്പേസ് എന്നത് എക്സ്ട്രാ ഫിസിക്കൽ സ്പെയ്സിലേക്ക് വിവർത്തനം ചെയ്യുന്നു വലിയ കമ്പ്യൂട്ടേഷണൽ ഡൊമെയ്നിലേക്ക് വിവർത്തനം ചെയ്യുന്നു മാട്രിക്സിന്റെ വലിയ വലുപ്പം കൂടുതൽ കമ്പ്യൂട്ടേഷൻ സമയം കൂടുതൽ റാം എല്ലാം ഒരു നല്ല കാരണവുമില്ലാതെ ഒന്നുമില്ല ഈ പ്രദേശത്ത് ആവേശകരമായ ഭൌതികശാസ്ത്രമൊന്നും സംഭവിക്കുന്നില്ല എന്തിനാണ് വിഷമിക്കേണ്ടത് വാസ്തവത്തിൽ അതിർത്തി വ്യവസ്ഥകൾ രൂപകൽപ്പന ചെയ്യുന്നതിലെ പരിഗണനകളിലൊന്ന് കണക്കുകൂട്ടൽ സമയം കുറയ്ക്കാനും കൃത്യത നിലനിർത്താനും എന്റെ ഗണിതശാസ്ത്ര അതിർത്തി ഒബ്ജക്റ്റിനോട് കഴിയുന്നത്ര അടുത്ത് എങ്ങനെ നേടാം എന്നതാണ് അതിനാൽ ഇത് വളരെ സാധാരണമായ ഒരു ആവശ്യകതയാണ് അതിനാൽ 1D യിൽ ഇത് കൃത്യമായ അതിർത്തി വ്യവസ്ഥയാണ് അത് കൃത്യമായി തൃപ്തികരമാണ് ഈ അതിർത്തി അവസ്ഥയ്ക്കും ഉയർന്ന അളവുകൾക്കും അതിൽ കൃത്യതയില്ലെന്ന് ഞങ്ങൾ കാണും പക്ഷേ ഞങ്ങൾ അത് ശരിയാകും അതിനാൽ നമുക്ക് വേവ് സമവാക്യം തുടരാം അതിനാൽ അതിർത്തി വ്യവസ്ഥയെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ അവശേഷിക്കുന്നത് ഒരു ഡിഫറൻഷ്യൽ സമവാക്യം എടുത്ത് അതിനെ FEM ഫോമിലേക്ക് പരിവർത്തനം ചെയ്യുക എന്നതാണ് അതിനാൽ നമുക്ക് അത് ആരംഭിക്കാം അപ്പോൾ ഞാൻ ആദ്യം ചെയ്യേണ്ടത് എന്താണ് ഡിഫറൻഷ്യൽ സമവാക്യം എടുത്ത് അതിന്റെ ശേഷിക്കുന്ന വലത് തൂക്കമുള്ള അവശിഷ്ടങ്ങൾ കണ്ടെത്തുന്നത് പരിഗണിക്കുക അതിനാൽ ഭാരം അവശിഷ്ടങ്ങൾ സംയോജിപ്പിക്കുക ശരി അതിനാൽ നമുക്ക് സംയോജന ചിഹ്നം ആദ്യം ശരിയാക്കാം അതിനാൽ നമുക്ക് വെയ്റ്റിംഗ് ഫംഗ്ഷനെ w എന്ന് വിളിക്കാം ഈ കേസിൽ അവശേഷിക്കുന്നത് എന്താണ് വിദ്യാർത്ഥി അത് ഇപ്പോൾ വലതു വശമല്ലാത്തതിനാൽ നമുക്ക് അത് എഴുതാം അതിനാൽ ഇത് നിങ്ങളുടേതാണ് FEM ന്റെ നിർവചനം മാത്രമാണ് നിങ്ങളുടെ കാത്തിരിപ്പ് പ്രവർത്തനം നിങ്ങളുടെ ശേഷിക്കുന്ന സംയോജനം എടുക്കുക ഞാൻ നിർവചിക്കുന്ന ഓരോ സെഗ്മെന്റിനുമുള്ള വെയ്റ്റിംഗ് ഫംഗ്ഷനുകളാണ് ws ഞാൻ ഇതുവരെ അടിസ്ഥാന ഫംഗ്ഷനുകൾ മാറ്റിസ്ഥാപിച്ചിട്ടില്ല ശരി അടുത്ത പടി ഘട്ടം 2 ഞങ്ങൾ ഇത് മുമ്പ് ചർച്ച ചെയ്തു അടുത്തതായി എന്താണ് ചെയ്യേണ്ടത് വിദ്യാർത്ഥി ദുർബലമായ രൂപത്തിലേക്ക് പരിവർത്തനം ചെയ്യുന്നു ദുർബലമായ രൂപത്തിലേക്ക് പരിവർത്തനം ചെയ്യുക അങ്ങനെ അത് അടിസ്ഥാനപരമായി ഭാഗങ്ങൾ ശരിയായി സംയോജിപ്പിക്കുന്നു അതിനാൽ നമ്മൾ ഇപ്പോൾ എന്തുചെയ്യണം അവിടെ ഇരട്ട ഡെറിവേറ്റീവ് പദമുണ്ട് അപ്പോൾ അത് എങ്ങനെ പരിവർത്തനം ചെയ്യാം അതിനാൽ ഒരു സംയോജനം അതിന് എന്നെ സഹായിക്കും അതിനാൽ ഇത് മാറും അതിനാൽ ഇത് വെയിറ്റഡ് റെസിഷ്യൽ ആയിരുന്നു ഇത് ഞങ്ങൾ നേരത്തെ ചർച്ച ചെയ്തതുപോലെ ഈ ദുർബലമായ ഫോം ഉപയോഗപ്രദമാണ് കാരണം ഇതിൽ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവുകൾ മാത്രം ഉൾപ്പെടുന്നു സംയോജനത്തിന്റെ പരിധി ഞാൻ നിശ്ചയിച്ചിട്ടില്ല പക്ഷേ അവ w യുടെ ഡൊമെയ്നുമായി പൊരുത്തപ്പെടുന്നു അത് ശരിയാണ് അതിനാൽ ഇപ്പോൾ നമുക്ക് കൂടുതൽ മുന്നോട്ട് പോകാം ഇപ്പോൾ നമുക്ക് തിരഞ്ഞെടുക്കാം എന്താണ് തിരഞ്ഞെടുക്കേണ്ടത് നമ്മൾ w തിരഞ്ഞെടുക്കണം നിങ്ങളുടെ ശരിയായത് തിരഞ്ഞെടുക്കണം